ഈ സെഷനും അടുത്തതും നമ്മൾ അസൈൻമെന്റ് നമ്പർ അഞ്ചും അസൈൻമെന്റ് നമ്പർ ആറും പരിഹരിക്കും അസൈൻമെന്റ് നമ്പർ ഒന്ന് മുതൽ നാല് വരെ ഞാൻ പരിഹരിക്കുന്നത് നിങ്ങൾ കണ്ടു ഈ രണ്ട് സെഷനുകളിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടക്കം മുതൽ തന്നെ ഈ കോഴ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീച്ചിംഗ് അസിസ്റ്റന്റുമാർ പ്രശ്നപരിഹാരം നടത്തും എന്നതാണ് അവർ റെഗുലർ പിഎച്ച്ഡി ഐഐടി കാൺപൂരിലെ ഭൌതികശാസ്ത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ആണ് കൂടാതെ അസൈൻമെന്റുകൾ ശരിയാക്കുന്നതിനും പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവർ ഉത്തരവാദികളാണ് അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ചെയ്ത പരിഹാരങ്ങൾ അവർ പങ്കിടുന്നു അസൈൻമെന്റ് നമ്പർ അഞ്ച് ശ്രീ റബീത് സിംഗ് മിസ് പർമിത ദാസ് ഗുപ്ത എന്നിവർ പരിഹരിക്കും അതിനാൽ ഇതാ റബീത് സിംഗ് ആദ്യ ചോദ്യത്തിൽ നിങ്ങൾ ഈ ഇന്റഗ്രൽ കോസ് തീറ്റ പ്രൈം സിൻ തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം ഓവർ ആർ സ്ക്വയറും ചെറിയ ആർ സ്ക്വയർ മൈനസ് രണ്ട് ആർ ക്യാപിറ്റലും ആർ കോസ് തീറ്റ പ്രൈം കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്രൈം സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ഫൈ പ്രൈം ഈ ഇന്റഗ്രൽ കണക്കാക്കാൻ ഒരു ഗോളീയ ഷെല്ലിന്റെ ഉയർന്ന സമമിതി സാന്ദ്രത ഉപയോഗിക്കുക അതിനാൽ ആദ്യം നമ്മൾ എന്തു ചെയ്യും ഗോളീയ ഷെല്ലിനുള്ള ഉയർന്ന സമമിതി സാന്ദ്രത കാരണം നമ്മൾ പോട്ടെൻഷ്യൽ കൾ കണക്കാക്കും കോസ് തീറ്റയ്ക്ക് തുല്യമായ സാന്ദ്രത സിഗ്മ തീറ്റ നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനാൽ ഈ സാന്ദ്രതയ്ക്കായി പ്രഭാഷണങ്ങളിൽ പോട്ടെൻഷ്യൽ നമ്മൾ കണ്ടു അതിനാൽ ഈ സാന്ദ്രത സിഗ്മ ഉൾപ്പെടുന്ന ഒരു ഗോളാകൃതിയിലുള്ള ഷെൽ നമ്മൾക്ക് ഉണ്ട് പോയിന്റ് വെക്റ്റർ r ലെ ഈ ഗോളാകൃതിയിലുള്ള ഷെൽ മൂലമുള്ള പോട്ടെൻഷ്യൽ ഈ പദപ്രയോഗത്തിലൂടെ നൽകപ്പെടുന്നുവെന്ന് നമ്മൾ പ്രഭാഷണങ്ങളിൽ കണ്ടു ഇത് r ഓവർ മൂന്ന് എപ്സിലോൺ 0 0 കോസ് തീറ്റ0 r ക്യാപിറ്റൽ R ൽ ചെറുതാണ് r ക്യാപിറ്റൽ R ൽ വലുതാണെങ്കിൽ ഈ പോട്ടെൻഷ്യൽ R ക്യൂബ് ഓവർ മൂന്ന് എപ്സിലോൺ നൽകിയിട്ടുണ്ട് അതിനാൽ ഈ സമഗ്രത കണക്കാക്കാൻ നമ്മൾ ഈ ഉത്തരം ഉപയോഗിക്കും അതിനാൽ വീണ്ടും V r 1 ഓവർ ഫോർ പൈ എപ്സിലോൺ നോട്ട് സിഗ്മ നോട്ട് തീറ്റ ഓവർ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ക്യാപിറ്റൽ R d തീറ്റ d phi അതിനാൽ സിഗ്മ തീറ്റ കോസ് തീറ്റയ്ക്ക് തുല്യമാണെങ്കിൽ നമുക്ക് ഈ ഉത്തരം എഴുതാം അതിനാൽ നൽകിയിരിക്കുന്ന സാന്ദ്രത സിഗ്മ തീറ്റ പ്രൈം കോസ് തീറ്റ പ്രൈം ആണെങ്കിൽ നമുക്ക് ഈ കോസ് തീറ്റ പ്രൈം എഴുതാം ഗോളാകൃതി സിസ്റ്റത്തിന് ഈ ഉപരിതല ഘടകം R സ്ക്വയർ സൈൻതീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം എന്നിവ നൽകുന്നു അതിനാൽ നൽകിയിരിക്കുന്ന സാന്ദ്രത കോസ് തീറ്റ പ്രൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് R സ്ക്വയർ സൈൻ തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം ഓവർ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ പ്രൈം എന്ന് എഴുതാം ഇവിടെ വെക്റ്റർ ആർ പ്രൈം എന്നത് ഗോളാകൃതിയിലുള്ള ഷെല്ലിലെ പോയിന്റിനെ സൂചിപ്പിക്കുന്നു Vr 14π0 r RR2sinddϕ 14π0 cosθr RR2sinddϕR24π0 cosθr Rsinddϕ r30 cosθ for r≤RR330 cosθr2 for r≥R അതിനാൽ നമുക്ക് ഇതിനെ R സ്ക്വയർ ഓവർ നാല് പൈ എപ്സിലോൺ നോട്ട് കോസ് തീറ്റ പ്രൈം സൈൻ തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം ഓൺ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ പ്രൈം എന്ന് എഴുതാം അതിനാൽ നമ്മൾ രണ്ട് ഉത്തരങ്ങളും താരതമ്യം ചെയ്താൽ ഈ പോട്ടെൻഷ്യൽ തുല്യമാണെന്ന് എനിക്ക് കാണാൻ കഴിയും കാരണം ഈ പോട്ടെൻഷ്യൽ ഉത്തരം നമ്മൾക്കറിയാം അതിനാൽ ഈ ഉത്തരങ്ങളുമായി നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യാം ഇത് മൂന്ന് എപ്സിലോൺ നോട്ട് കോസ് തീറ്റ നൽകിയിട്ടുണ്ട് r ക്യാപിറ്റൽ R നേക്കാൾ ചെറുതാണ് കൂടാതെ തുല്യമാണ് R ക്യൂബിന് ഓവർ മൂന്ന് എപ്സിലോൺ നോട്ട് കോസ് തീറ്റ ഓവർ ആർ സ്ക്വയർ r ക്യാപിറ്റൽ R നേക്കാൾ തുല്യമോ വലുതോ ആണ് അതിനാൽ നമുക്ക് അത് കാണാൻ കഴിയും നമുക്ക് ഇത് കോസ് തീറ്റ പ്രൈം സൈൻ തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം ഓവർ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ പ്രൈം വൺ ഓവർ ഫോർ പൈ പൈ എപ്സിലോൺ ആർ ആർ സ്ക്വയർ ഓവർ 3 എപ്സിലോൺ നോട്ട് കോസ് തീറ്റ r ക്യാപിറ്റൽ R നേക്കാൾ ചെറുതാണ് കൂടാതെ തുല്യമാണ് R ക്യൂബിന് ഓവർ മൂന്ന് എപ്സിലോൺ നോട്ട് കോസ് തീറ്റ ഓവർ ആർ സ്ക്വയർ r ക്യാപിറ്റൽ R നേക്കാൾ വലുതാണ് R24π0 cosr Rsindd r30 cosθ for r≤R R330 cosθr2 for r≥Rcosr Rsindd 4πr3R2cosθ for r≤R 4πR3r2cosθ for r≥R r Rr2R2 2rRcoscosθsinsinθcosϕ ϕ cossinddR2r2 2rRcoscosθsinsinθcosϕ ϕ അതിനാൽ നിങ്ങൾക്ക് ഇത് സൈൻ തീറ്റ പ്രൈം കോസ് തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം ഓവർ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ പ്രൈം തുല്യമായി എഴുതാം അതിനാൽ നിങ്ങൾക്ക് ഇത് കാണാം ഇത് r ഓവർ ക്യാപിറ്റൽ ആർ സ്ക്വയറായി 4 പൈ കോസ് തീറ്റയായി എഴുതാംr ക്യാപിറ്റൽ R നേക്കാൾ ചെറുതാണ് കൂടാതെ 4 pi R ഓവർ 3 കോസ് തീറ്റ ഓവർ r സ്ക്വാർ ന് തുല്യമാണ് r ക്യാപിറ്റൽ R നേക്കാൾ വലുതാണ് അതിനാൽ ഇവിടെ ഒരു ഗോളാകൃതിയിൽ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ക്യാപിറ്റൽ ആർ എന്നതിന് തുല്യമായി എഴുതാം സോറി മോഡ് ഓഫ് വെക്റ്റർ മോഡ് ഓഫ് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസിന് തുല്യമായി എഴുതാം ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കോസ് തീറ്റ പ്രൈം കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്രൈം സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ഫൈ പ്രൈം അതിനാൽ മോഡ് ആർ മൈനസ് വെക്റ്റർ R ന്റെ മൂല്യം എഴുതുകയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ സൈൻതീറ്റ പ്രൈം കോസ് തീറ്റ പ്രൈം ഡി തീറ്റ പ്രൈം ഡി ഫൈ പ്രൈം ഓവർ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് 2 ആർ ക്യാപിറ്റൽ ആർ കോസ് തീറ്റ പ്രൈം കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്രൈം സൈൻ തീറ്റ കോസ് ഫൈ മൈനസ് ഫൈ പ്രൈം അതിനാൽ ഇത് നമുക്ക് കണക്കാക്കേണ്ട അവിഭാജ്യമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരമാണിത് അതിനാൽ നമ്മളുടെ അടുത്ത ചോദ്യം ചോദ്യ നമ്പർ രണ്ട് ആണ് ചോദ്യം നമ്പർ രണ്ട് നമ്മൾക്ക് ഒരേപോലെ ചാർജ്ജ് ചെയ്ത ഗോളാകൃതിയിലുള്ള ഷെൽ ഉണ്ട് അതിനാൽ ഇത് z അക്ഷത്തിന് ചുറ്റും കറങ്ങുന്നു അതിനാൽ ഈ ഗോളാകൃതിയിലുള്ള ഷെല്ലിൽ ഒരു ഉപരിതല ഘടകം എടുക്കുകയാണെങ്കിൽ ഓരോ മൂലകവും z അക്ഷത്തിന് ചുറ്റും കോണീയ വേഗത ഒമേഗയുമായി സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാം അതിനാൽ d s ഉപരിതല മൂലകത്തിന്റെ വേഗത നൽകുന്നത് അതിനാൽ ഈ കോണാണ് അതിനാൽ z അക്ഷത്തോടുകൂടിയ തീറ്റയുടെ അടുത്തുള്ള വെക്റ്റർ r ആണെങ്കിൽ ഈ ഉപരിതല ഘടകം d s ചലിക്കുന്ന വൃത്തത്തിന്റെ ആരം ഇതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നമുക്ക് കാണാൻ കഴിയും ഇതാണ് d s നീങ്ങുന്ന സർക്കിൾ അതിനാൽ സർക്കിളിന്റെ ദൂരം r സൈൻ തീറ്റയാണ് നൽകുന്നത് അതിനാൽ വി r r സൈൻ തീറ്റ ഗുണം ഒമേഗ നൽകുന്നത് നിങ്ങൾക്ക് കാണാം ഇത് കോണീയ വേഗതയിലേക്കുള്ള ദൂരം മാത്രമാണ് അതിനാൽ കറന്റ് സാന്ദ്രത j r എന്നത് സിഗ്മയാണ് നൽകുന്നത് അതിനർത്ഥം സാന്ദ്രത എന്താണെങ്കിലും സിഗ്മ ഗുണം V r പക്ഷേ ഇതാണ് ഉപരിതല സാന്ദ്രത അതിനാൽ നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി വോളിയം കറന്റ് ഡെൻസിറ്റി എന്നിവ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇത് ഡെൽറ്റ ആർ മൈനസ് വെക്റ്റർ R ഗുണം v r എന്ന് എഴുതുന്നു rsinθω അതിനാൽ ഈ ഉപരിതല ഘടകം ഫൈ ദിശയിലൂടെ നീങ്ങുന്നത് നമുക്ക് കാണാം അതിനാൽ j r ന്റെ r ദിശ ഫൈ ക്യാപിറ്റൽ നൊപ്പമായിരിക്കും അതിനാൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണിത് സമാന പ്രശ്നത്തിനുള്ള ഉത്തരം നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗം ഞാൻ ഈ ഗോളാകൃതിയിലുള്ള ഷെൽ എടുത്ത് ഇവിടെ ഒരു ബാൻഡ് പരിഗണിക്കുകയാണെങ്കിൽ ഈ ബാൻഡിന് ഒരു ഏരിയയുണ്ട് അത് രണ്ട് പൈ ആർ സൈൻ തീറ്റ തവണ R ഡി തീറ്റയാണ് ഇതാണ് ബാൻഡിന്റെ ആകെ വിസ്തീർണ്ണം അതിനാൽ ഇതാണ് 2 pi R സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഈ ബാൻഡിലെ ചാർജ് നെറ്റ് ചാർജ് q 2 pi R സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ടൈംസ് സിഗ്മയാണ് ഈ ചാർജ് ചുറ്റും പോകുന്നു ഇത് സെക്കൻഡിൽ ചുറ്റുന്നു സെക്കൻഡിൽ അത് പോകുന്നു ചാർജ് സെക്കൻഡിൽ ഒമേഗ ഓവർ 2 പൈ തവണയിൽ പോകുന്നു rsinθω അതിനാൽ ഈ ബാൻഡ് നൽകുന്ന കറന്റ് രണ്ട് പൈ ആർ സ്ക്വയർ സൈൻതീറ്റ ഡി തീറ്റ ടൈംസ് സിഗ്മ ടൈംസ് ഒമേഗ ഓവർ രണ്ട് പൈ ആണ് നമുക്ക് ചില റദ്ദാക്കലുകൾ നടത്താം 2 പൈ റദ്ദാക്കുന്നു നിങ്ങൾക്ക് R സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ സിഗ്മ ഒമേഗ ലഭിക്കും അതാണ് ഉപരിതലത്തിൽ പോകുന്ന വൈദ്യുതധാര അതിനാൽ ഉപരിതല വൈദ്യുത സാന്ദ്രത ഈ വൈദ്യുതധാരയെ ഇവിടെയുള്ള നീളത്താൽ വിഭജിക്കും ഇത് ഈ ഗോളത്തിലെ ചുവപ്പ് നിറത്തിൽ ഞാൻ കാണിക്കുന്നു അത് R d തീറ്റയാണ് അതിനാൽ ഇത് R സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ സിഗ്മ ഒമേഗയെ R d തീറ്റ കൊണ്ട് ഹരിക്കുന്നു നമുക്ക് വീണ്ടും ചില റദ്ദാക്കലുകൾ നടത്താം d തീറ്റ റദ്ദാക്കുന്നു R റദ്ദാക്കുന്നു നിങ്ങൾക്ക് R സിഗ്മ ഒമേഗ സൈൻ തീറ്റ ലഭിക്കും അതിനാൽ ഉപരിതല വൈദ്യുത സാന്ദ്രത കെ സിഗ്മ ആർ ഒമേഗ സൈൻ തീറ്റയാണ് ഫൈ ദിശയിലുള്ളത് ഞാൻ ഇത് ഒരു വോളിയം കറന്റ് ഡെൻസിറ്റി ആയി പ്രകടിപ്പിക്കുകയാണെങ്കിൽ j എന്നത് k തവണയ്ക്ക് തുല്യമായിരിക്കും ഇത് r മൈനസ് R അതിനാൽ ഇത് സിഗ്മ ആർ ഒമേഗ സൈൻ തീറ്റ ഡെൽറ്റ ആർ മൈനസ് ആർ ഫൈ ആയി മാറുന്നു ഇത് മുമ്പത്തെ അതേ ഉത്തരമാണ് അതിനാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരേ പ്രശ്നം കാണാനുള്ള രണ്ട് വ്യത്യസ്ത വഴികൾ നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രശ്നം നമ്പർ മൂന്ന് പരിഹരിക്കാൻ പോകുന്നു അതിനാൽ മൂന്നാമത്തെ പ്രശ്നത്തിൽ ഇന്റഗ്രൽ ഡി ഫൈ പ്രൈം ഡി z പ്രൈം ഓവർ വെക്റ്റർ ആർ സ്ക്വയറും ഈ ചെറിയ ആർ സ്ക്വയർ മൈനസ് 2 ചെറിയ ആർ ക്യാപിറ്റൽ ആർ കോസ് തീറ്റ കോസ് ഫി മൈനസ് ഫൈ പ്രൈമും z മൈനസ് z പ്രൈമും കണക്കാക്കണം ഇത് z മൈനസ് z പ്രൈമിന്റെ ചതുരമാണ് അതിനാൽ ഈ ഇന്റഗ്രൽ കണക്കുകൂട്ടണം അതിനാൽ നമ്മൾ വീണ്ടും എന്തുചെയ്യും അതിനാൽ നമ്മൾക്ക് ഒരു സിലിണ്ടർ ഉണ്ട് ഞാൻ ഒരു ഏകീകൃത സാന്ദ്രത സിഗ്മ കൊണ്ടുവരുന്നു അതിനാൽ ആദ്യം ഞാൻ ഗോസ്സ്സിയൻ ഉപരിതലമുണ്ടാക്കും അത് സിലിണ്ടർ ആണ് കാരണം ഇവിടെ ഫൈ സമമിതി ഉണ്ട് അതിനാൽ ഉപരിതലത്തിലെ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ലംബമായി കാണാം അത് r k ദിശയിലാണ് ds charged enclosed0 അതിനാൽ ഉപരിതല മൂലകവും ഒരേ ദിശയിലാണ് അത് R ക്യാപിറ്റൽമാണ് അതിനാൽ ഗോസ്സ് നിയമമനുസരിച്ച് നമുക്ക് എഴുതാം ഈ ഉപരിതലത്തിന്റെ നീളം ക്യാപിറ്റൽം L ആണ് സിലിണ്ടർ സെല്ലിന്റെ ദൂരം ക്യാപിറ്റൽ R ആണ് കൂടാതെ ഗോസ്സ്സിയൻ ഉപരിതലത്തിന്റെ ദൂരം ചെറുതാണ് അതിനാൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഗോസ്സ് നിയമം ഉപയോഗിക്കും അത് E dot ds ന് തുല്യമാണ് അതിനാൽ ചാർജ്ജ് അടച്ചിരിക്കുന്നു ഗോസ്സ് നിയമം ഗോസ്സ്സിയൻ ഉപരിതലത്തിൽ എപ്സിലോൺ നോട്ട് ചാർജ്ജ് ന് തുല്യമാണ് 2πrL 2πRLσ0E Rσ0r അതിനാൽ ചാർജ്ജ് എൻക്ലോസ്ഡ് സിലിണ്ടർ ഷെല്ലിന്റെ ഉപരിതല വിസ്തീർണ്ണത്തിന് തുല്യമാകുമെന്ന് നമുക്ക് കാണാം ഇത് 2 പൈ ക്യാപിറ്റൽ ആർ ഗുണം L ഗുണം എപ്സിലോൺ നോട്ട് ചാർജ് സാന്ദ്രതയിലേക്ക് നൽകുന്നു അതിനാൽ ഓരോ ഘട്ടത്തിലും E സ്ഥിരമായിരിക്കുന്നതിനാൽ നമുക്ക് ഇത് 2 pi ക്യാപിറ്റൽ R ഗുണം ക്യാപിറ്റൽ L ഗുണം സിഗ്മ ഓവർ എപ്സിലോൺ നോട്ട് എഴുതാം അതിനാൽ ഗോസ്സ്സിയൻ ഉപരിതലത്തിന്റെ വിസ്തീർണ്ണമാണ് ds അതിനാൽ വൈദ്യുത മണ്ഡലം E തുല്യമാണ് L 2 pi കാരണം റദ്ദാക്കപ്പെടും അതിനാൽ ഇലക്ട്രിക് ഫീൽഡ് നൽകുന്നത് r എപ്സിലോണിന് മുകളിലൂടെ ആർ സിഗ്മയാണ് ഇലക്ട്രിക് ഫീൽഡ് നൽകുന്നത് സിഗ്മ ഓവർ എപ്സിലോൺ നോട്ട് ഗുണം r Vr rREdrrRRσ0rdr σR0 lnrrRVrσR0ln Rr അതിനാൽ പോയിന്റ് r ലെ വൈദ്യുത മണ്ഡലം സിഗ്മ ക്യാപിറ്റൽ R ഓവർ എപ്സിലോൺ നോട്ട് r ആയി കണക്കാക്കും അതിനാൽ പോട്ടെൻഷ്യൽ v r r ക്യാപിറ്റൽ R E dot dr ന് നൽകുന്നു ഇവിടെ r എന്നത് റഫറൻസ് പോയിന്റാണ് അതിനാൽ ഞാൻ എന്തു ചെയ്യും സിലിണ്ടർ ഷെല്ലിന്റെ ഉപരിതലത്തിൽ ഞാൻ റഫറൻസ് പോയിന്റ് എടുക്കും അതിനാൽ ഇത് ഇ സിഗ്മ ക്യാപിറ്റൽ ആർ ഓവർ എപ്സിലോൺ നോട്ട് ആർഡിആറിന് തുല്യമായിരിക്കും ഇത് എപ്സിലോൺ ഓവർ സിഗ്മ ആർക്ക് തുല്യമാണ് അതിനാൽ ഇതാണ് പോട്ടെൻഷ്യൽ അതിനാൽ ഈ സിലിണ്ടർ ഷെൽ സിലിണ്ടർ സിലിണ്ടർ ഏകീകൃത സാന്ദ്രത സിഗ്മ ഉള്ളതിനാൽ ഇത് സാധ്യമാണ് അതിനാൽ ക്യാപിറ്റൽ R നേക്കാൾ വലുതാണെന്നും സിലിണ്ടറിനുള്ളിൽ E 0 ന് തുല്യമാണെന്നും കണക്കാക്കാൻ ഞാൻ ഈ ഫലം ഉപയോഗിക്കും അതിനാൽ സിലിണ്ടറിനുള്ളിൽ പോട്ടെൻഷ്യൽ സ്ഥിരമാണ് ഇത് ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പോട്ടെൻഷ്യൽ ന്റെ തുല്യമായിരിക്കും സിലിണ്ടർ ഷെൽ അതിനാൽ റഫറൻസ് പോയിന്റിൽ 0 ന്റെ പോട്ടെൻഷ്യൽ എടുക്കുകയാണെങ്കിൽ അത് 0 ന് തുല്യമായിരിക്കട്ടെ അതിനാൽ നമുക്ക് സിലിണ്ടറിനുള്ളിലും സിലിണ്ടറിന് പുറത്തും 0 ന് തുല്യമാണ് v ഈ പോയിന്റിന് തുല്യമാണ് അതിനാൽ ഞാൻ വീണ്ടും എഴുതുകയാണെങ്കിൽ വീണ്ടും ഞാൻ യൂണിഫോം ചാർജ് ഡെൻസിറ്റി സിഗ്മയുള്ള ഒരു സിലിണ്ടർ ഷെൽ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോയിന്റ് p ലെ പോട്ടെൻഷ്യൽ ഇതാണ് ചാർജ് എലമെൻറ് ഇത് R d phi പ്രൈം d z പ്രൈം ഗുണം സിഗ്മ നൽകുന്നു അതിനാൽ ഇതാണ് ചാർജ് ഘടകം ഇതുമൂലം നിങ്ങൾ p പോയിന്റിലെ പോട്ടെൻഷ്യൽ കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് വെക്റ്റർ r ആണ് അതിനാൽ നമുക്ക് d പോട്ടെൻഷ്യൽ കാണാം അതിനാൽ പോയിന്റ് p ലെ പോട്ടെൻഷ്യൽ എല്ലാ ഉപരിതല മൂലകങ്ങളും മൂലമുള്ള പോട്ടെൻഷ്യൽ ആകെത്തുകയാണ് ഇത് സിഗ്മ R d phi പ്രൈം d z പ്രൈം ഓവർ വെക്റ്റർ r മൈനസ് വെക്റ്റർ R ന് തുല്യമായ ഇന്റഗ്രൽ v r നൽകുന്നു ഇത് ചാർജ് ഘടകത്തിൽ നിന്ന് നിങ്ങൾ പോട്ടെൻഷ്യൽ കണക്കാക്കേണ്ട സ്ഥലത്തേക്കുള്ള ദൂരമാണ് Vr 14π0σR ddzr R σR0ln Rr r≥R0 r≤R അതിനാൽ നമ്മൾ കണക്കാക്കിയ ഈ പ്രശ്നത്തിന്റെ ഉത്തരം നമ്മൾക്കറിയാം അതിനാൽ ഈ v r നൽകുന്നത് ഇത് സിഗ്മ ആർ ഓവർ എപ്സിലോൺ നോട്ട് എൽ ആർ ആർ ഓവർ സ്മോൾ ആർ r ക്യാപിറ്റൽ R നേക്കാൾ വലുതാണ് 0 ന് തുല്യവുമാണ് r ക്യാപിറ്റൽ R നേക്കാൾ ചെറുതാണ് അതിനാൽ ഈ സമഗ്രത നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയും സിഗ്മ ആർ റദ്ദാക്കപ്പെടും കൂടാതെ ഒരു വെക്റ്റർ കൂടി ഉണ്ട് അതായത് 1 ഓവർ 4 പൈ എപ്സിലോൺ നോട്ട് σR ddzr R4π ln Rr r≥R 0 r≤R r R r2R2 2rRcosϕ z z2 dϕdzr2R2 2rRcosϕ z z2 അതിനാൽ എപ്സിലോൺ നോട്ട് റദ്ദാക്കില്ല അതിനാൽ നമുക്ക് d phi പ്രൈം d z പ്രൈം വെക്റ്റർ r മൈനസ് വെക്റ്റർ ക്യാപിറ്റൽ R എഴുതാം ഇത് r പ്രൈം 4 pi l n വെക്റ്റർ r ക്യാപിറ്റൽ R നേക്കാൾ വലുതാണ് 0 ന് തുല്യമാണ് r ക്യാപിറ്റൽ R നേക്കാൾ ചെറുതാണ് അതിനാൽ ഈ ഇന്റഗ്രൽ കണ്ടാൽ നമുക്ക് വെക്റ്റർ ക്യാപിറ്റൽ R ന്റെ മോഡ് എഴുതാം അത് r സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് രണ്ട് ആർ ക്യാപിറ്റൽ ആർ കോസ് ഫി മൈനസ് ഫി പ്രൈം പ്ലസ് z മൈനസ് z പ്രൈം മുഴുവൻ സ്ക്വയർ അതിനാൽ ഞാൻ വെക്റ്റർ ആർ മൈനസ് ക്യാപിറ്റൽ ആർ വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ക്യാപിറ്റൽ ആർ എന്നിവയുടെ മോഡ് ഇട്ടാൽ അതാണ് ഡി ഫി പ്രൈം dz പ്രൈം ഓവർ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് 2 ആർ ക്യാപിറ്റൽ ആർ കോസ് ഫി പ്രൈം ഫി മൈനസ് ഫൈ പ്രൈം ഒപ്പം z മൈനസ് z പ്രൈം മുഴുവൻ സ്ക്വയറും അതിനാൽ ഇത് നമ്മൾ കണക്കാക്കേണ്ട ഇന്റഗ്രൽ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ പ്രശ്ന നമ്പർ 3 നുള്ള ഉത്തരമാണിത് അതിനാൽ അസൈൻമെന്റിൽ ഒരു ഘടകമുണ്ട് രണ്ട് ഫൈ ഇല്ലായിരുന്നു അതിനാൽ ഇത് ടൈപ്പിംഗ് പിശകാണ് നാലാം ചോദ്യത്തിൽ നമ്മൾക്ക് ഒരു ഡിസ്ക് ഉണ്ട് ഇതിന് z അക്ഷത്തിൽ ഏകീകൃത കാന്തികവൽക്കരണം ഉണ്ട് അതിനാൽ കാന്തികവൽക്കരണം z ദിശയിലാണ് ഇത് ഇതാണ് അതിനാൽ ഞാൻ സിഗ്മ ബി ആയ ബൌണ്ട് കറന്റ് കണക്കാക്കിയാൽ ഇത് എം ക്രോസ് എൻ ക്യാപ് നൽകുന്നു അതിനാൽ ഇവിടെ ഞാൻ വെക്റ്റർ എം എഴുതുകയാണെങ്കിൽ അത് j ദിശയിലാണ് കൂടാതെ ഉപരിതല മൂലകവും z ദിശയിലാണെന്ന് നമുക്ക് കാണാം അതിനാൽ സിഗ്മ ബി 0 ന് തുല്യമാണ് അതിനാൽ ഇത് നമ്മുടെ കെ ബി ആണ് Kb Mn Mzz 0 അതിനാൽ നമുക്ക് ഒരു ഏകീകൃത കാന്തികവൽക്കരണം ഉള്ളതിനാൽ j b ആയ വോളിയം ചാർജ് ഡെൻസിറ്റി ഡെൽ ക്രോസ് എം നൽകുന്നു അതിനാൽ ഇതും പൂജ്യമാണ് ഡിസ്കിന് പുറത്ത് M പൂജ്യത്തിന് തുല്യമാണ് കാരണം കാന്തികവൽക്കരണം ഡിസ്കിൽ മാത്രമാണ് ഫ്രീ കറന്റും ബൌണ്ട് കറന്റും ഇല്ലാത്തതിനാൽ നമുക്ക് ബി എഴുതാനും 0 ന് തുല്യമാണ് M0 B0 അതിനാൽ പ്രശ്നo നമ്പർ 4 നുള്ള ഉത്തരമാണിത് പരിഹാരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് നോക്കുന്നതിനുള്ള വ്യത്യസ്ത രീതിയും നിങ്ങൾ പറഞ്ഞത് കെ ബി ഇത് M ക്രോസ് n 0 ആണ് ഫലത്തിൽ ഇത് മുകളിലും താഴെയുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉന്നയിക്കാം എനിക്ക് ഇത് ഉണ്ടെന്നും M ഈ z ദിശയിലാണെന്നും ചോദ്യം ആയിരിക്കും വശത്ത് ഉപരിതലത്തിൽ ഒരു n ഉണ്ട് അതിനാൽ നിങ്ങൾ M ക്രോസ് n എടുക്കും ഡിസ്കിന്റെ ചുറ്റളവിൽ നിലവിലുള്ളത് നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ ഞാൻ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കറന്റ് ഇതുപോലെയാകാം എന്നിരുന്നാലും നമ്മൾ ഈ പ്രശ്നം ചെയ്തത് ഇത് നേർത്ത വലിയ ഡിസ്കാണ് അതിൽ ഡിസ്കിന്റെ ദൂരത്തിന്റെ വ്യാപ്തി കട്ടിയേക്കാൾ വളരെ വലുതാണ് അതിനാൽ ഉപരിതല വൈദ്യുതധാര ചില കാന്തികക്ഷേത്രത്തിന് കാരണമാകുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതെ പക്ഷേ ഇത് വളരെ ചെറുതാണ് ഫലപ്രദമായി പൂജ്യം കാരണം വലിയ R നിങ്ങൾക്ക് കേന്ദ്രത്തിൽ വളരെ ചെറിയ ഒരു ഫീൽഡ് നൽകും അതിനാൽ ചെയ്തത് ശരിയായിരുന്നു പക്ഷേ പെരിഫറൽ കറന്റ് ഉണ്ടാകാമെന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാൽ ആ വൈദ്യുതധാര കാന്തികക്ഷേത്രത്തിന് ഒന്നും സംഭാവന ചെയ്യുന്നില്ല H ന്റെ വീക്ഷണകോണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സഹായ ഫീൽഡിൽ നിന്നോ നിങ്ങൾക്ക് സമാന പ്രശ്നം നോക്കാനാകും ഇപ്പോൾ ഇതുപോലുള്ള ഒരു എം ഉണ്ട് ബി യുടെ വ്യതിചലനം പൂജ്യമാണെന്ന് നമ്മൾ പ്രഭാഷണത്തിൽ നടത്തിയതായി നിങ്ങൾ ഓർക്കുന്നു അതിനാൽ എച്ച് വ്യതിചലനം മൈനസ് എം ന്റെ വ്യതിചലനത്തിന് തുല്യമാണ് M കുറുകെ നോക്കിയാൽ അത് പരിമിതമാണ് പെട്ടെന്ന് താഴേക്ക് പോകുന്നു M Hinside MHoutside0B 0H MBinside o M M0Boutside0 അതിനാൽ എം ഒരു ഡെൽറ്റ ഫംഗ്ഷൻ പോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് ഉപരിതല കാന്തിക ചാർജിന് കാരണമാകുന്നു ഉപരിതല കാന്തിക ചാർജ് നിങ്ങൾക്ക് ഇവിടെ കാണാം M ന്റെ വ്യതിചലനം മൈനസ് M ആയിരിക്കും മറുവശത്ത് M ന്റെ വ്യതിചലനം M ഉം ആയിരിക്കും കാരണം നിങ്ങൾ M കടക്കുമ്പോൾ M കുറയുന്നു അതിനാൽ ഞാൻ M ന്റെ വ്യതിചലനത്തിന്റെ മൈനസ് എടുക്കുമ്പോൾ H ന്റെ കണക്കുകൂട്ടലിനായി ഈ ഡിസ്കിൽ ഉള്ളതുപോലെ ഇവിടെ ഒരു പോസിറ്റീവ് മാഗ്നറ്റിക് ചാർജും നെഗറ്റീവ് മാഗ്നറ്റിക് ചാർജും ഇവിടെയുണ്ട് കൂടാതെ ഒരു തരം ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് പോലെയാകും അതിനാൽ എച്ച് ഇവിടെ മറ്റൊരു ദിശയിലായിരിക്കും അതിനാൽ എച്ച് അകത്ത് മൈനസ് എം എച്ച് പുറത്ത് 0 എന്നിവയ്ക്ക് തുല്യമായിരിക്കും ബി mu 0 H plus M ന് തുല്യമാണെന്നും എനിക്കറിയാം അതിനാൽ B ഉള്ളിൽ mu 0 മൈനസ് M പ്ലസ് M ആയിരിക്കും അത് 0 ആണ് H ന് 0 ഉം M 0 ഉം ആയതിനാൽ B ന് പുറത്ത് അതിനാൽ ഇത് സമാനമാണ് പ്രശ്നം നേരത്തെ ചെയ്തതുപോലെ രണ്ടും നിങ്ങൾക്ക് ഒരേ ഉത്തരം നൽകുന്നു ബന്ധിത പ്രവാഹങ്ങളിലൂടെയോ വൈദ്യുത വിശകലനത്തിലൂടെയോ ഒരേ പ്രശ്നം കാണാനുള്ള രണ്ട് വഴികൾ നിങ്ങൾക്ക് നൽകി അഞ്ചാം ചോദ്യത്തിനുള്ള ചോദ്യത്തിന് ഇത് ഉത്തരം നൽകുന്നു